ഇനി നാം യൂണിറ്റ് 9 മുതൽ 10 വരെ ഉള്ള മെഷ് അനാലിസിസ് അസൈൻമെന്റ് ചെയ്യുന്നു ആദ്യത്തെ ചോദ്യം എന്നത് ഈ സർക്യൂട്ടിൽ മെഷ് അനാലിസിസ് ഇക്വേഷനുകൾ എഴുതുക എന്നതാണ് ഇവിടെ നമുക്ക് റെസിസ്റ്ററുകളും വോൾടേജ് സോഴ്സുകളും മാത്രമാണുള്ളത് ഇത് മെഷ് അനാലിസിസ് ചെയ്യുന്നതിലെ ഏറ്റവും ലളിതമായ കാര്യമാണ് നമുക്ക് മൂന്നു മെഷ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ മെഷ് കറന്റ് എന്നത് I1 I2 I3 ആണ് അത് ആദ്യമേ തന്നിട്ടുണ്ട് ആദ്യ കറന്റ് കോഎഫിഷ്യന്റ് എന്നത് ഈ റെസിസ്റ്ററുകളുടെ തുകയാണ് അത് 2 കിലോ Ω kilo Ω 1കിലോ Ω kilo Ω2 കിലോ Ω kilo Ω എന്നതാണ് അപ്പോൾ ഉത്തരം 5 കിലോ Ω kilo Ω ആണ് ഈ വാല്യൂ എന്നത് മെഷ് 1 ന്റെയും 2 ന്റെയും പൊതുവായ റെസിസ്റ്റൻസിന്റെ നെഗറ്റീവ് ആണ് അത് 2 കിലോ Ω kilo Ω ആണ് അപ്പോൾ അത് 2 കിലോ Ω kilo Ω ആയി മാറുന്നു അവസാനം ഈ എൻട്രി എന്നത് മെഷ് 1 നും 3 നും പൊതുവായ റെസിസ്റ്റൻസിന്റെ നെഗറ്റീവ് ആണ് അവിടെ അങ്ങനെ ഒരു റെസിസ്റ്റർ ഇല്ലാത്തതിനാൽ ഇത് 0 ആണ് രണ്ടാമത്തെ മെഷിൽ ആകെ റെസിസ്റ്റൻസ് എന്നത് 5 കിലോ Ω kilo Ω ആണ് ഇത് എന്നത് മെഷ് 1 ന്റെയും 2 ന്റെയും പൊതുവായ റെസിസ്റ്റൻസിന്റെ നെഗറ്റീവ് ആണ് അത് 2 കിലോ Ω kilo Ω ആണ് അപ്പോൾ നമുക്ക് 2 കിലോ Ω kilo Ω ഉണ്ട് അവസാനം മൂന്നാമത്തെ മെഷിൽ ആകെ റെസിസ്റ്റൻസ് എന്നത് 5 കിലോ Ω kilo Ω ആണ് അത് ഇവിടെ ഈ ഡയഗണൽ എലമെന്റ് ആണ് അതിനു ശേഷം ഈ 2 കിലോ Ω kilo Ω അത് മെഷ് 2 നും 3 നും പൊതുവാണ് മെഷ് 1 നും 3 നും ഇടയിൽ മറ്റു റെസിസ്റ്റൻസ് ഒന്നുമില്ല ഇത് സിമെട്രിക് ആയതുകൊണ്ട് നാം ഇത് ഫിൽ ചെയ്തു അതുപോലെ ഈ വലതുവശവും ഫിൽ ചെയ്യാം ഇനി ഓരോ മെഷിലും വോൾടേജ് റൈസ് എന്നത് എത്ര എന്ന് കണ്ടെത്തണം ആദ്യം ഈ മെഷ് 1 എടുക്കുക അവിടെ വോൾടേജ് റൈസ് എന്നത് 1 7 ആണ് പിന്നെ വോൾടേജ് ഡ്രോപ്പ് എന്നത് 3 അപ്പോൾ നമുക്കുള്ളത് 1 7 വോൾട് ആണ് രണ്ടാമത്തെ മെഷിൽ വോൾടേജ് റൈസ് എന്നത് 3 4 ആണ് പിന്നെ വോൾടേജ് ഡ്രോപ്പ് എന്നത് 6 അകെ വോൾടേജ് ഡ്രോപ്പ് എന്നത് 3 മൂന്നാമത്തേതിൽ വോൾടേജ് റൈസ് എന്നത് 6 8 ആണ് വോൾടേജ് ഡ്രോപ്പ് എന്നത് 13 അപ്പോൾ ആകെ വോൾടേജ് റൈസ് എന്നത് 6 എന്താണെങ്കിലും ഇവിടെ ചോദിച്ചത് റെസിസ്റ്റൻസ് മാട്രിക്സ് ആണ് അതാണ് ഇവിടെ തന്നിരിക്കുന്നത് നാം യൂണിറ്റ് കളഞ്ഞു നമ്പർ മാത്രമായി എഴുതുക അത് 5 2 0 2 5 2 പിന്നെ 0 2 5 അതാണ് ഉത്തരം ഇനി അടുത്ത ചോദ്യം എന്നത് അതെ സർക്യൂട് തന്നെ നിങ്ങൾ ഈ വോൾടേജ് Vx എത്രയാണെന്ന് കണ്ടെത്തുക അപ്പോൾ നാം നേരത്തെ കണ്ടെത്തിയ സെറ്റ് അപ്പ് എന്നത് സോൾവ് ചെയ്യുക അപ്പോൾ Vx എത്രയാണെന്ന് കണ്ടെത്തുക അത് സോൾവ് ചെയ്യുക ആദ്യം കറന്റ് വെക്റ്റർ എന്നത് കണ്ടെത്തുക ഇവിടെ യൂണിറ്റ് എന്നത് കിലോ Ω kilo Ω ആണ് അപ്പോൾ അതിന്റെ ഇൻവെർസ് എന്നത് മില്ലി സീമെൻസ് ആണ് അപ്പോൾ ഇവയെ 1 മില്ലി സീമെൻസ് വച്ച് ഗുണിക്കുക ആണ് ആദ്യം ചെയ്യുന്നത് പിന്നീട് സോഴ്സ് വെക്റ്റർ 7 വോൾട് 3 4 വോൾട് പിന്നെ 6 8 വോൾട് എന്നിങ്ങനെ ആണ് അങ്ങനെ ചെയ്താൽ ഉത്തരം 1 14 മില്ലി ആംപിയർ 2 മില്ലി ആംപിയർ പിന്നെ 2 16 മില്ലി ആംപിയർ എന്നിങ്ങനെ ആണ് ഇപ്പോൾ നിങ്ങൾക്കു വ്യക്തമായി കാണാം V x എന്നത് I2 ×1 കിലോΩ kilo Ω പിന്നെ ഈ റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറന്റ് എന്നത് I2 ആണ് അത് മെഷ് 2 ൽ മാത്രമാണ് അവിടെ റെസിസ്റ്റൻസ് എന്നത് 1 കിലോΩ kilo Ω ആണ് പിന്നെ ഈ I2 എന്നത് 2 മില്ലി ആംപിയർ ആണ് അപ്പോൾ ഈ V x എന്നത് 2 മില്ലി ആംപിയർ × 1 കിലോΩ kilo Ω 2 വോൾട് ആണ് ഇപ്പോൾ നിങ്ങൾക്കു കാണാം ഈ 2 വോൾട് എന്നത് ശരിയായ ഉത്തരമാണ് ഇവിടെ ഇനിയും ഒരു ചോദ്യമുണ്ട് എവിടെ ആണ് മെഷ് അനാലിസിസ് ഇക്വേഷനുകൾ എഴുതേണ്ടത് ആദ്യത്തെ കേസിൽ നിന്നുമുള്ള വ്യത്യാസം എന്നത് അവിടെ ആകെ ഒരു വോൾടേജ് സോഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇൻഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് പിന്നെ റെസിസ്റ്റൻസ് എന്നാൽ ഇപ്പോൾ നമുക്ക് ഒരു ഇൻഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് ഒരു കറന്റ് സോഴ്സ് പിന്നെ റെസിസ്റ്ററുകൾ എന്നിവ ഉണ്ട് അപ്പോൾ ഈ കറന്റ് എന്നത് 1 കിലോΩ kilo Ω × I x ആണ് പിന്നെ I x എന്നത് ഈ ദിശയിൽ ആണ് നിങ്ങൾക്കു ഇപ്പോൾ വ്യക്തമായി കാണാം ഈ I x i3 i2 ആണ് ഇതിൽ i3 എന്നത് മുകളിലേക്കാണ് i2 എന്നത് താഴേക്കും ഉറപ്പായും നമുക്ക് ഇവിടെ അധികമായി ഒരു വോൾടേജ് ഡ്രോപ്പ് ഉണ്ട് അത് 1 കിലോΩ kilo Ω x i3 i2 ആണ് അതാണ് വോൾടേജ് ഡ്രോപ്പ് ഇവിടെ നമുക്ക് i3 പിന്നെ i2 എന്നിവ ഉണ്ട് ഇവ ഇവിടെ നിന്നും ഒഴിവാക്കിയാൽ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ട് എന്നാൽ അത് ഉൾപ്പെടുത്തിയാൽ മറ്റൊരെണ്ണം അതായതു i3 i2 എന്നിവയുടെ കോഎഫിഷ്യന്റ് മാറ്റപ്പെടുന്നു അപ്പോൾ ഇവിടെ വീണ്ടും മെഷ് ഇക്വേഷൻ എഴുതിയാൽ അത് i1 × 3 കിലോΩ kilo Ω എന്ന് ലഭിക്കുന്നു അത് ഈ മെഷിലെ ആകെ റെസിസ്റ്റൻസ് ആണ് അത് നമുക്ക് 1കിലോΩ kilo Ω എന്ന് ലഭിക്കും എന്തെന്നാൽ ഈ റെസിസ്റ്റൻസ് എന്നത് എന്നത് മെഷ് 1 2 എന്നിവക്കു പൊതുവാണ് എന്നാൽ 1 നും 3 നും ഒന്നും പൊതുവായില്ല ഇത് ആകെ വോൾടേജ് റൈസ് നു തുല്യമാണ് അത് അര വോൾട് ആണ് അത് വോൾടേജ് റൈസ് വോൾടേജ് ഡ്രോപ്പ് ആണ് അതാണ് 1 കിലോΩ kilo Ω x i3 i2 ഇവിടെയും ഒരു അൺ നോൺ ഉണ്ട് നാം മറു വശത്തേക്ക് പോകുന്നു അപ്പോൾ ആദ്യ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്നത് 0 അത് ഈ ഇടതു വശത്തെ സോഴ്സ് കാരണമാണ് i1 ന്റെ കോഎഫിഷ്യന്റ് എന്നത് 3 കിലോΩ kilo Ω ആണ് അതുപോലെ i2 ന്റെ കോഎഫിഷ്യന്റ് എന്നത് 1 കിലോΩ kilo Ω ആണ് പിന്നെ ഇവിടെ 1 കിലോΩ kilo Ω അതുപോലെ ഇത് 2 കിലോΩ kilo Ω അവസാനം ഇത് 1 കിലോΩ kilo Ω x i3 അത് നിങ്ങൾ അടുത്ത വശത്തേക്ക് മാറ്റുമ്പോൾ അതുപോലെ ഈ രണ്ടാമത്തെ റോ നോക്കിയാൽ ആദ്യം പരമ്പരാഗതമായ ടെം ആണ് എഴുതേണ്ടത് അത് അകെ മെഷ് റെസിസ്റ്റൻസ് ആയ 3 കിലോΩ kilo Ω പിന്നെ മെഷ് 1 മെഷ് 2 എന്നിവക്ക് പൊതുവായ റെസിസ്റ്റൻസ് അത് 1 കിലോΩ kilo Ω ആണ് മെഷ് 2 3 എന്നിവക്കും 1 കിലോΩ kilo Ω തന്നെ ആണ് പൊതുവായി ഉള്ളത് എന്നാൽ അധികമായി നമുക്ക് ഒരു വോൾടേജ് റൈസ് ഉണ്ട് അത് 1 കിലോΩ kilo Ω x i3 i2 ആണ് ലെഫ്റ് ഹാൻഡ് സൈഡ് നാം നോക്കുക വോൾടേജ് ഡ്രോപ്പ് ആയിരിക്കും അത് i2 നു 1 കിലോΩ kilo Ω ആണ് പിന്നെ i3 നു 1 കിലോΩ kilo Ω അതുപോലെ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ൽ നമുക്കുള്ളത് ഇൻഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് ആണ് അത് വോൾടേജ് റൈസ് അത് 2 വോൾട് ആണ് എന്തെന്നാൽ ഇവിടെ നമുക്ക് വോൾടേജ് ഡ്രോപ്പ് 2 വോൾട് ആണുള്ളത് ഇനി നമുക്ക് ഇത് ഒന്നിപ്പിക്കണം ഇത് 1 കിലോΩ kilo Ω ആയി നിലനിൽക്കുന്നു എന്നാൽ ഇത് 4 കിലോΩ kilo Ω ആകുന്നു അതോടൊപ്പം ഇത് 2 കിലോΩ kilo Ω ആയി മാറുന്നു അവസാനം മൂന്നാമത്തെ മെഷ് എന്തെന്നാൽ നമുക്ക് വോൾടേജ് സോഴ്സുകളും റെസിസ്റ്ററുകളും ആണ് ഉള്ളത് ആകെ മെഷ് റെസിസ്റ്റൻസ് 3 കിലോΩ kilo Ω എന്നത് ഇവിടെ വരുന്നു പിന്നെ മെഷ് 2 നും 3 നും ഇടയിൽ പൊതുവായുള്ളവ ഇവിടെ നെഗറ്റീവ് ആയി വരുന്നു പിന്നെ മെഷ് 1 3 അവയ്ക്കു പൊതുവായി ഉള്ള ഒന്നും ഇവിടെയില്ല റൈറ്റ് ഹാൻഡ് സൈഡ് എന്നത് ആകെ വോൾടേജ് റൈസ് ആണ് അത് 2 വോൾട് 4 വോൾട് അത് 2 വോൾട് ഇവിടെ റെസിസ്റ്റൻസ് മാട്രിക്സ് നോക്കുക ഈ ഭാഗം എന്നത് 3 2 1 എന്നത് ആദ്യ റോ പിന്നെ 1 4 2 എന്നത് രണ്ടാമത്തെ റോ അവസാനം 0 1 3 മൂന്നാമത്തെ റോ ഇതിന്റെ യൂണിറ്റ് എന്നത് കിലോΩ kilo Ω ആണ് ഉത്തരം ഈ നമ്പർ എഴുതുക എന്നതാണ് വീണ്ടും നിങ്ങൾക്കു ഇവിടെ ഒരു Vx തന്നിരിക്കുന്നു അത് ഇവിടെ ആണ് ആദ്യമേ നിങ്ങൾക്കു കാണാം ഈ V x എന്നത് i1 × 1 കിലോΩ kilo Ω ആണ് അപ്പോൾ ഈ i1 കാണുന്നു എങ്കിൽ ഇതും കണ്ടെത്താനാകും ഇത് വേറൊരു പ്രശ്നമായി പരിഗണിക്കാനാകും ഏതു രീതി ഉപയോഗിച്ചായാലും ഉത്തരം കണ്ടെത്താം എന്നാൽ മെഷ് ഇക്വേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണു എന്തണെന്നാൽ ഈ അസൈൻമെന്റ് അതിനാണല്ലോ അപ്പോൾ ഈ മെഷ് അനാലിസിസ് ഇക്വേഷനുകൾ ഉപയോഗിച്ച് അത് പരിഹരിക്കാം I1 മാത്രമല്ല മറ്റു കറന്റുകളും നമുക്കറിയാം ഈ i1 i2 i3 എന്നിവ 3 2 1 1 4 2 0 1 3 ഇൻവെർസ് ആണ് അതിന്റെ യൂണിറ്റ് എന്നത് മില്ലി സീമെൻസ് ആണ് റെസിസ്റ്റൻസ് മാട്രിക്സ് എന്നത് കിലോΩ kilo Ω ആണ് അപ്പോൾ അതിന്റെ ഇൻവെർസ് എന്നത് മില്ലി സീമെൻസ് ആയിരിക്കും അപ്പോൾ അത് x സോഴ്സ് വെക്റ്റർ അത് നാം കണ്ടു 0 5 വോൾട് 2 വോൾട് പിന്നെ 2 വോൾട് ഇനി ഈ i1 i2 i3 എന്നിവ കണ്ടെത്തിയാൽ അത് 0 2 മില്ലി ആംപിയർ 1 06 മില്ലി ആംപിയർ പിന്നെ 1 02 മില്ലി ആംപിയർ എന്ന് കിട്ടും നമുക്ക് ഇവിടെ i1 മാത്രം മതി അപ്പോൾ V x എന്നത് I2 x 1 കിലോΩ kilo Ω ആണ് 2 വോൾട് ആണ് അപ്പോൾ ഈ V x 0 ഇതാണ് നമുക്ക് വേണ്ട ഉത്തരം i1 i2 i3 എന്നിവ അറിയുന്നത് വഴി ഏതു വാല്യൂ വേണ്ടമെങ്കിലും കണ്ടെത്താം ഇനി അടുത്ത പ്രശ്നത്തിലേക്ക് കടക്കാം ഇവിടെ നിങ്ങൾക്കു ഒരു സർക്യൂട് ഉണ്ട് ഇവിടെ ഈ സോഴ്സ് പുറത്തേക്കു വിടുന്ന പവർ എത്ര ആണ് എന്നതാണ് ചോദ്യം പവർ ആണ് ഉത്തരം എന്നതിനാൽ ഇത് ഏതു രീതിക്കു വേണമെങ്കിലും ചെയ്യാനാകും എങ്കിലും ഈ അസൈൻമെന്റ് എന്നത് മെഷ് അനാലിസിസ് ആയതിനാൽ നമുക്ക് അത് ചെയ്യാം ഇവിടെ റെസിസ്റ്ററുകളും ഇൻഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് പിന്നെ ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സ് എന്നിവ ആണ് ഉള്ളത് നമുക്ക് സൂപ്പർ മെഷ് ഇവിടെ പ്രയോഗിക്കേണ്ടതായി വരും നമുക്ക് പറയാം ഇത് i1 പിന്നെ ഇത് i2 പിന്നെ ഇത് i3 ഇത് മൂന്നു മെഷ് കറന്റുകൾ ആണ് നമുക്കറിയാം ഇവിടെ ഒരു ബ്രാഞ്ചിൽ ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ഉള്ളതിനാൽ നമുക്ക് ഒരു സൂപ്പർ മെഷ് നിർമിക്കേണ്ടതായുണ്ട് അതിനു ശേഷം KVL എഴുതണം ആദ്യം എഴുതേണ്ട ഇക്വേഷൻ എന്നത് ആദ്യ മേശയിലെ ആകെ റെസിസ്റ്റൻസ് ആണ് അത് 3 കിലോΩ kilo Ω ആണ് മെഷ് 1 മെഷ് 2 എന്നിവയ്ക്ക് പൊതുവായ റെസിസ്റ്റൻസ് 1 കിലോΩ kilo Ω ആണ് അതിനാൽ അത് 1 ആയി മാറുന്നു പിന്നെ മെഷ്1 മെഷ് 3 എന്നിവയ്ക്കിടയിൽ മറ്റു റെസിസ്റ്റൻസ് ഇല്ലാത്തതിനാൽ ഇവിടെ 0 ആകും ഈ റൈറ്റ് ഹാൻഡ് സൈഡ് എന്നത് വോൾടേജ് റൈസ് ആണ് ഉള്ളത് പിന്നെ രണ്ടാമത് നമുക്ക് സൂപ്പർ മെഷ് നിർമിക്കേണ്ടി വരുന്നു ഇവിടെ i2 ഈ രണ്ടു റെസിസ്റ്ററിലൂടെ ആണ് ഒഴുകുന്നത് അകെ 2 കിലോΩ kilo Ω പിന്നെ i3 എന്നത് ഈ രണ്ടു റെസിസ്റ്ററിലൂടെ ആണ് അവസാനം i1 എന്നത് ഈ റെസിസ്റ്ററിലൂടെ ആണ് ഒഴുകുന്നത് അത് നാം സൂപ്പർ മെഷിൽ സഞ്ചരിച്ച ദിശക്ക് വിപരീതമാണ് അപ്പോൾ അതിന്റെ കോഎഫിഷ്യന്റ് എന്നത് 1 ആയിരിക്കും മറ്റൊരു രീതിക്കു പറഞ്ഞാൽ ഈ 1 കിലോΩ kilo Ω റെസിസ്റ്റൻസ് ആണ് ഈ സൂപ്പർ മെഷിനും മറ്റു മെഷിനും പൊതുവായി ഉള്ളത് ഈ സൂപ്പർ മെഷിലെ ആകെ വോൾടേജ് റൈസ് എന്നത് 2 8 വോൾട് ആണ് ഇവിടെ ഒരു തെറ്റ് പറ്റി ഇവിടെ 8 8 വോൾട് ആണ് വേണ്ടത് അപ്പോൾ നമുക്ക് 6 6 വോൾട് ഉണ്ട് പിന്നെ ഇവിടെ 2 അവസാനം ഈ സൂപ്പർ മെഷിലെ കറന്റിന് ഒരു ബന്ധം കണ്ടെത്തണം നമുക്കറിയാം ഈ ബ്രാഞ്ചിൽ കറന്റ് എന്നത് i2 i3 ആണ് അതിനാൽ ഇവിടെ കറന്റ് എന്നത് i2 i3 ആണ് പിന്നെ നമുക്ക് ഇതും അറിയാം ഈ വാല്യൂ എന്നത് ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സ് തന്നെ ആണ് 1 മില്ലി ആംപിയർ ആണ് അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷൻ എന്നത് i2 i3 1 1 മില്ലി ആംപിയർ എന്നത് മാത്രമാണ് അപ്പോൾ ഈ റെസിസ്റ്റൻസ് മാട്രിക്സ് ൽ എൻട്രി എന്നത് റെസിസ്റ്റൻസ് ആകാം അതുപോലെ ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റന്റ് ആകാം അതുപോലെ സോഴ്സ് വെക്ടറിൽ വോൾടേജ് കറന്റ് ഇവ രണ്ടും വരാം അപ്പോൾ ഇവിടെ പവർ എന്നത് എങ്ങനെ കണ്ടെത്തും 2 വോൾട് സോഴ്സിൽ പവർ എന്നത് ഈ 2 2 വോൾട് x പാസ്സീവ് സൈൻ കൺവെൻഷൻ നു വിപരീതമായ ദിശയിൽ അതിലൂടെ ഒഴുകുന്ന കറന്റ് നേരെ മറിച്ചു ഈ V പിന്നെ അതിലൂടെ ഉള്ള കറന്റ് I നിങ്ങൾ എടുക്കുമ്പോൾ അത് തമ്മിൽ ഗുണിക്കുക 2 വോൾട് സോഴ്സിൽ സ്വീകരിപ്പപ്പെടുന്ന പവർ അപ്പോൾ നമുക്ക് കാണാം ഈ മുകളിലേക്ക് ഒഴുകുന്ന കറന്റ് എന്നത് i2 i1 ആണ് അപ്പോൾ ഈ ബ്രാഞ്ചിൽ കറന്റ് എന്നത് i2 i1 ആണ് അപ്പോൾ പവർ എന്നത് ഈ i2 i1 x ഈ വോൾടേജ് സോഴ്സ് വോൾടേജ് അത് 2 2 വോൾട് ആണ് ഇനി ഇതിൽ നിന്നും i1 i2 i3 എന്നിവ കണ്ടുപിടിക്കാം ഈ i1 i2 i3 എന്നിവ ഉള്ള സൊല്യൂഷൻ വെക്റ്റർ എന്നത് 0 8 മില്ലി ആംപിയർ 1 3 മില്ലി ആംപിയർ പിന്നെ 2 4 മില്ലി ആംപിയർ എന്നിവ ആണ് അപ്പോൾ I2 I2 എന്നത് 1 3 0 5 മില്ലി ആംപിയർ ആണ് അപ്പോൾ അത് 0 5 മില്ലി ആംപിയർ x 2 1 മില്ലി വാട്ട് ആണ് അടുത്ത ചോദ്യത്തിൽ നിങ്ങൾക്കു കുറച്ചു സർക്യൂട് തന്നിരിക്കുന്നു ഇതിൽ ആകെ റെസിസ്റ്ററുകൾ മാത്രമാണുള്ളത് പിന്നെ ഇതിൽ ആദ്യമേ രണ്ടു സോഴ്സുകൾ ഉണ്ട് ഇതിൽ റെസിസ്റ്ററുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് ഈ മുഴുവൻ നെറ്റ്വർക്ക് എന്നത് ലീനിയർ ആണ് എന്നതാണ് ഇതിൽ ഇൻഡിപെൻഡന്റ് സോഴ്സ് എന്നത് i1 പിന്നെ V2 എന്നതാണ് അപ്പോൾ ഇവിടെ ഉളള ഏതു ബ്രാഞ്ച് വേരിയബിൾ ആണെങ്കിലും അത് ഏതോ ഒരു കോൺസ്റ്റന്റ് α1 x i1 മറ്റൊരു കോൺസ്റ്റന്റ് α2 x V2 എന്നതായിരിക്കും അതിന്റെ ഡയമെൻഷൻ എന്നത് മാറ്റമുണ്ടാകാം എന്നാൽ അത് ഇവിടെ പ്രസക്തമല്ല അതുപോലെ നിങ്ങൾ മറ്റേതെങ്കിലും വേരിയബിൾ എടുക്കുക അതും നമുക്ക് ഒരു 𝛽1 × i1 പിന്നെ മറ്റൊരു 𝛽2 × V2 എന്നും എഴുതാം എന്തെന്നാൽ നമുക്ക് ആകെ 2 ഇൻഡിപെൻഡന്റ് സോഴ്സ് ആണുള്ളത് ബാക്കി എവിടെയാണെങ്കിലും സർക്യൂട് ലീനിയർ ആണ് ഏതു വോൾടേജ് ആണെങ്കിലും കറന്റ് ആണെങ്കിലും അവയെല്ലാം i1 V2 എന്നിവയുടെ ലീനിയർ കോമ്പിനേഷൻ ആണ് ഇവിടെ നിങ്ങൾക്കു കുറെ നിബന്ധനകൾ തന്നിരിക്കുന്നു അവ Ix എന്നത് 1 മില്ലി ആംപിയർ i1 എന്നത് 2 മില്ലി ആംപിയർ പിന്നെ V2 എന്നത് 5 വോൾട് പിന്നെ V x is 6 വോൾട് i1 എന്നത് 8 മില്ലി ആംപിയർ അവസാനം V2 എന്നത് 10 വോൾട് ഇവിടെ നമുക്ക് നാലു വേരിയബിൾ ആണ് ഉള്ളത് ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് 1 α2 1 പിന്നെ 𝛽2 പിന്നെ നമുക്ക് ഇതും അറിയാം I x V x 2 കിലോ Ω kilo Ω ആണ് അതെ ഡെഫിനിഷൻ ഉപയോഗിച്ച് പറയാം V x Ix x 2 കിലോ Ω kilo Ω ഇവിടെ നമുക്ക് രണ്ടു ഇക്വേഷനുകൾ സെറ്റ് ആക്കാം എനിക്ക് ഇത് V x ആക്കി മാറ്റം അല്ലെങ്കിൽ Ix ആക്കി മാറ്റാം ഞാൻ ആദ്യത്തെ കേസ് എടുക്കുന്നു അത് Ix എന്നത് 1മില്ലി ആംപിയർ ആണ് അതിന്റെ അർഥം V x എന്നത് 1 മില്ലി ആംപിയർ × 2 കിലോ Ω kilo Ω ആണ് അത് 2 വോൾട് അപ്പോൾ 2 വോൾട് i1 എന്നത് 2 മില്ലി ആംപിയർ ആകുമ്പോൾ ആണ് അത് α1 × 2 മില്ലി ആംപിയർ α2 × V2 അത് 5 വോൾട് ആണ് ഈ നിബന്ധനകൾ വച്ച് നോക്കുക അത് Ix എന്നത് 1 മില്ലി ആംപിയർ ആണ് അത് പോലെ Vx എന്നത് 2 വോൾട് ഈ 1 മില്ലി ആംപിയർ എന്നത് ഈ 2 കിലോ Ω kilo Ω റെസിസ്റ്ററിനു ആയതിനാൽ Vx എന്നത് അതിനു കുറുകെ ആണ് അളക്കുക Vx എന്നത് 6 വോൾട് ആണ് അതായതു 6 α1 × i1 അത് 8 മില്ലി ആംപിയർ α 2 V2 അത് 10 വോൾട് അത് സോൾവ് ചെയ്താൽ നമുക്ക് α 1 α 2 എന്നിവ കണ്ടുപിടിക്കാനാകും ഇവിടെ α 1 എന്നത് 0 5 കിലോ Ω kilo Ω ആണ് അപ്പോൾ അതിന്റെ ഡയമെൻഷൻ കിലോ Ω kilo Ω ആണ് അത് പോലെ α 2 എന്നത് 0 അതിനു ഡയമെൻഷൻ ഇല്ല എന്തെന്നാൽ വോൾടേജ് കിട്ടാൻ വോൾടേജ് വച്ചാണ് ഗുണിക്കുന്നതു ഈ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ I2 എന്നത് 6 മില്ലി ആംപിയർ എന്ന് കിട്ടും അപ്പോൾ ഈ Vx എന്നത് കിട്ടും അത് ഈ 2 കിലോ Ω kilo Ω റെസിസ്റ്ററിനു കുറുകെ ഉള്ള വോൾടേജ് ആണ് 5 2 കിലോ Ω kilo Ω × 6 മില്ലി ആംപിയർ 0 2 × 15 വോൾട് എന്ന് കിട്ടും അപ്പോൾ ആ വോൾടേജ് എന്നത് 0 കിട്ടും അപ്പോൾ അതിനു കുറുകെ പവർ ഒന്നും ചെലവാക്കപ്പെടുന്നില്ല അപ്പോൾ ഉത്തരം എന്നത് 0 ആണ് അടുത്ത ചോദ്യത്തിൽ ഈ 5 വോൾട് സോഴ്സിന്റെ സംഭാവന ആണ് കണ്ടെത്തേണ്ടത് തീർച്ചയായും ഇത് പല രീതിയിൽ കണ്ടെത്താം ആദ്യം ഈ 20 വോൾട് 40 വോൾട് സോഴ്സുകൾ 0 ആക്കുക വീണ്ടും ഇവിടെ ഞാൻ മെഷ് അനാലിസിസ് തന്നെ ചെയ്യുന്നു എനിക്കിവിടെ ഇൻഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് റെസിസ്റ്ററുകൾ പിന്നെ കറന്റ് കൺട്രോൾഡ് വോൾടേജ് സോഴ്സ് എന്നിവ ആണ് ഉള്ളത് ഞാൻ ആദ്യമേ നൽകിയ സർക്യൂട്ടുമായി ഇത് താരതമ്യം ചെയ്തു നോക്കിയാൽ അത് ഒരു കാര്യത്തിലൊഴികെ എല്ലാം സമാനമാണ് എന്തെന്നാൽ വോൾടേജ് സോഴ്സ് വാല്യൂ എന്നത് ഇവിടെ വ്യത്യസ്തമാണ് അപ്പോൾ ഈ റെസിസ്റ്റൻസ് മാട്രിക്സ് എന്നത് അത് തന്നെ ആണ് സോഴ്സ് വെക്റ്റർ ആണ് മാറുക അപ്പോൾ റെസിസ്റ്റൻസ് മാട്രിക്സ് എന്നത് ആദ്യത്തെ പ്രശ്നത്തിലേതു തന്നെ ആണ് ഞാൻ അത് വീണ്ടും കാണിക്കുന്നു അത് ഏതാണെന്നു ഞാൻ കാണിക്കാം അത് പ്രശനം 3 ആണ് ഇതാണ് ആ റെസിസ്റ്റൻസ് മാട്രിക്സ് ഈ റൈറ്റ് ഹാൻഡ് സൈഡ് എന്നത് ആദ്യ മെഷിൽ ഉള്ള വോൾടേജ് റൈസ് ആണ് അത് 5 വോൾട് പിന്നെ രണ്ടാമത്തെ മെഷിൽ ഉള്ള വോൾടേജ് റൈസ് അത് 20 വോൾട് അവസാനം മൂന്നാമത്തെ മെഷിൽ ഉള്ള വോൾടേജ് റൈസ് അത് 20 40 അത് 20 വോൾട് ഇനി നമുക്ക് Vx കണ്ടെത്തണം ഈ V x പൂർണമായും അല്ല അതിലെ 5 വോൾട് സോഴ്സിന്റെ സംഭാവന നമുക്കറിയാം ഈ V x എന്നത് i1 ആണ് ഞാൻ ഇവിടെ മെഷ് കറന്റ് അടയാളപ്പെടുത്തുന്നു i1 i2 i3 എന്നിവയാണത് ഇവിടെ മൂന്നു മെഷ് കറന്റ് ഉണ്ട് അതിൽ നിന്നും Vx എന്നത് I2 × 1 കിലോ ഓം ആണ് i1 i2 i3 എന്നിവ ഈ മാട്രിക്സ് ഇൻവെർസ് എടുത്താൽ കിട്ടുന്നതാണ് അത് 2 ബൈ 5 1 ബൈ 5 0 3 ബൈ 25 9 ബൈ 25 1 ബൈ 5 പിന്നെ 1 ബൈ 25 3 ബൈ 25 പിന്നെ 2 ബൈ 5 എന്നതാണ് ഇതിന്റെ യൂണിറ്റ് എന്നത് മില്ലി സീമെൻ ആണ് പിന്നെ അത് × സോഴ്സ് വെക്റ്റർ അത് 5 വോൾട് 20 വോൾട് പിന്നെ 20 വോൾട് നമുക്ക് ഈ 5 വോൾട് മാത്രം എന്ത് നൽകുന്നു എന്ന് നോക്കിയാൽ മതി അതിനാൽ ഇത് രണ്ടും നാം 0 ആക്കുക നമുക്ക് അറിയാം ഈ i1 എന്നത് ഈ നമ്പർ ആണ് അത് 2 ബൈ 5 × 5 വോൾട് പിന്നെ × 1 മില്ലി സീമെൻ അപ്പോൾ ഈ 5 വോൾട് സോഴ്സ് മാത്രം കൊണ്ടുണ്ടാകുന്ന i1 എന്നത് 2 മില്ലി ആംപിയർ ആണ് ഈ നമ്പർ പിന്നെ ഈ നമ്പർ എന്നിവ കൊണ്ട് ഗുണിക്കുക അപ്പോൾ V x എന്നത് I1 × 1 കിലോ Ω അത് 2 മില്ലി ആംപിയർ × 1 കിലോ Ω അപ്പോൾ 5 വോൾട് സോഴ്സ് മൂലമുള്ള Vx എന്നത് 2 വോൾട് ആണ് അത് 2 മില്ലി ആമ്പിയർ 1 കിലോ ഓം എന്നിവ കൊണ്ട് ഗുണിച്ചതാണ് അതാണ് ശരിയായ ഉത്തര൦ ഇനി നാം അടുത്ത പ്രശ്നത്തിലേക്ക് കടക്കുന്നു നിങ്ങൾക്കു ഒരു സർക്യൂട് തന്നിട്ടുണ്ട് ഈ A B എന്നിവക്കിടയിലെ എല്ലാം നാം മാറ്റേണ്ടിയിരിക്കുന്നു അത് റെസിസ്റ്റൻസ് പിന്നെ വോൾടേജ് സോഴ്സ് ഒരു കറന്റ് സോഴ്സ് എന്നിവ സീരീസ് ആണ് അതിൽ എന്താണ് ഉള്ളത് എന്നത് പ്രസക്തമല്ല നിങ്ങൾ ചെയ്യേണ്ടത് ആ ബ്രാഞ്ചിലെ കറന്റ് കണ്ടെത്തുക എന്നിട്ടു ആ കറന്റ് വാല്യൂ ആയുള്ള കറന്റ് സോഴ്സ് വച്ച് അതിനെ മാറ്റുക അപ്പോൾ താഴെ മുതൽ മുകളിലേക്ക് നാം വച്ച് മാറേണ്ടി ഇരിക്കുന്നു ഞാൻ അത് വഴി ഒഴുകുന്ന കറന്റിനെ ഞാൻ I x എന്ന് വിളിക്കുന്നു അപ്പോൾ ഈ I x എന്ന കറന്റ് സോഴ്സ് നമുക്ക് വേണ്ട ജോലി ചെയ്യും അതുപോലെ വോൾടേജ് സോഴ്സ് ഉപയോഗിച്ച് വച്ച് മാറണമെങ്കിൽ നിങ്ങൾക്കു വീണ്ടും ആ ബ്രാഞ്ചിൽ വോൾടേജ് എത്രയെന്നു കണ്ടെത്തണം നമുക്കതിനെ V x എന്ന് വിളിക്കാം അപ്പോൾ V x എന്ന വാല്യൂ ഉള്ള വോൾടേജ് സോഴ്സ് നമുക്ക് വേണ്ട ജോലി ചെയ്യും ഇത് നിങ്ങൾക്കു എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഞാൻ മെഷ് അനാലിസിസ് ചെയ്യുകയാണ് ഇവിടെ നമുക്ക് ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ആണ് ഉള്ളത് അപ്പോൾ ഇവിടെ സൂപ്പർ മെഷ് ഉണ്ടാകേണ്ടതായുണ്ട് ഞാൻ ഇവിടെ i1 i2 പിന്നെ i3 ഇവിടെ ഒരു തെറ്റ് സംഭവിച്ചു ഇത് 11 മില്ലി ആംപിയർ ആണ് 8 വോൾട് ആണ് ഞാൻ ഇവിടെ എന്റെ കോപ്പി ശരിയാക്കി അത് തന്നെ നിങ്ങളും ചെയ്യുക അപ്പോൾ ആദ്യ മേശയിൽ ആകെ 300 Ω ആണ് റെസിസ്റ്റൻസ് ഈ മെഷ് 1 മെഷ് 2 എന്നിവയ്ക്കു പൊതുവായുള്ളതു 100 Ω പിന്നെ മെഷ് 1 3 എന്നിവയ്ക്ക് ഒന്നും പൊതുവായി ഇല്ല അപ്പോൾ അത് i1 i2 പിന്നെ i3 ഈ രണ്ടു റെസിസ്റ്ററുകൾ വച്ച് ഈ സൂപ്പർ മെഷ് i2 ഗുണിച്ചു അതായതു ഈ 200 Ω i3 എന്നത് ഈ രണ്ടു റെസിസ്റ്ററുകളുമായി ഗുണിക്കുന്നു അതും 200 ആണ് അപ്പോൾ ആകെ എന്നത് ഈ സൂപ്പർ മെഷിനു൦ മെഷ് 1 നും പൊതുവായ റെസിസ്റ്റൻസ് ആണ് അത് 100 Ω ആണ് അപ്പോൾ നമുക്ക് ഇവിടെ 100 എന്ന് കിട്ടുന്നു അവസാനം ഈ ഇക്വേഷൻ നോക്കുന്നു ഇത് ഈ കറന്റ് സോഴ്സിന് വേണ്ടി ആണ് അത് i2 i3 എന്നതാണ് അത് 11 മില്ലി ആംപിയർ ആണ് അപ്പോൾ ഈ i2 i3 എന്നത് 11 മില്ലി ആംപിയർ ആണ് മറ്റു രണ്ടു എൻട്രികൾ എന്നത് ആദ്യ മെഷിന്റെ വോൾടേജ് റൈസ് അത് 1 1 വോൾട് 2 2 വോൾട് പിന്നെ 1 പിന്നെ സൂപ്പർ മെഷിലെ വോൾടേജ് 2 വോൾട് 8 8 വോൾട് അത് 6 അപ്പോൾ നമുക്ക് ഈ i1 i2 പിന്നെ i3 എന്നിവ കണ്ടെത്താം അത് മാട്രിക്സ് ഇൻവെർസ് എടുത്തിട്ടാണ് അപ്പോൾ അത് 8 മില്ലി ആംപിയർ 13 മില്ലി ആംപിയർ പിന്നെ 24 മില്ലി ആംപിയർ എന്നിങ്ങനെ ആണ് എന്തെന്നാൽ ഈ i2 i3 എന്നത് 11 മില്ലി ആംപിയർ ആണ് ഇനി നമ്മുടെ കേസിൽ നമുക്ക് ഈ I x എന്ന കറന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നാൽ i 2 i 1 എന്നത് 13 8 അത് 5 മില്ലി ആംപിയർ ആണ് അപ്പോൾ ഈ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്ന ബ്രാഞ്ച് എന്നത് നമുക്ക് 5 മില്ലി ആംപിയർ കറന്റ് സോഴ്സ് ഉപയോഗിച്ച് മാറ്റണം അടുത്ത ചോദ്യമെന്നത് അതെ ബ്രാഞ്ച് ഒരു വോൾടേജ് സോഴ്സ് ഉപയോഗിച്ച് വച്ച് മാറുക എന്നതാണ് നമുക്ക് V x എന്ന വോൾടേജ് കണ്ടുപിടിക്കണം ഈ 100 Ω കുറുകെ ഉള്ള വോൾടേജ് എന്നത് ഈ ദിശയിൽ ആണ് അത് i1 i2 × 100 Ω പിന്നെ I1 I2 എന്നിവ 5 മില്ലി ആംപിയർ ആണ് അപ്പോൾ ഇത് 500 മില്ലി വോൾട് ആണ് അപ്പോൾ 5 മില്ലി ആംപിയർ കറന്റ് സോഴ്സ് മാറി അവിടെ 2 7 വോൾട് വോൾടേജ് സോഴ്സ് വക്കുന്നു ഇനി അസൈൻമെന്റ് 5 നോക്കുക